സോളിഡ് വർക്കുകൾ തുടരുന്നു ഹലോ അവസാന പ്രഭാഷണത്തിൽ ഈ അഡ്വാൻസ്ഡ് മേറ്റ് കളെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇപ്പോൾ ഈ പ്രഭാഷണത്തിൽ സോളിഡ് വർക്കുകളിൽ ലഭ്യമായ മെക്കാനിക്കൽ മേറ്റ് കളെക്കുറിച്ച് നമ്മുക്ക് നോക്കാം മെക്കാനിക്കൽ മേറ്റ് കളിൽ നമുക്ക് ക്യാം മേറ്റ് സ്ലോട്ട് മേറ്റ് ഹിഞ്ച് ഗിയർ റാക്ക് ആൻഡ് പിനിയൻ സ്ക്രൂ യൂണിവേഴ്സൽ ജോയിന്റ് universal joint എന്നിവ കാണാം അതിനോടകം തന്നെ ഹിഞ്ച് മേറ്റ് ഗിയർ മേറ്റ് എന്നിവയും നമ്മൾ നോക്കിക്കഴിഞ്ഞു അതിനാൽ ഇപ്പോൾ ഈ പ്രഭാഷണത്തിൽ നമ്മൾക്ക് ഈ ക്യാം മേറ്റ് ൽ നിന്ന് ആരംഭിക്കാം ഈ ക്യാം മേറ്റ് നായി നിങ്ങൾക്കായി ഇവിടെ കാണാൻ ചില ഭാഗങ്ങൾ ലോഡുചെയ്തു ഈ പ്രത്യേക ഭാഗത്തെ ക്യാം എന്ന് വിളിക്കുന്നു ഇത് ക്യാം ഉപരിതലമാണ് ഇത് ഇതിന്റെ ഒരു തുടർച്ചയാണ് നമുക്ക് ഈ ഫോള്ളോവെഴ്സിനെ ഇതിലേക്ക് അസ്സെംബിൾ ചെയ്യാം ഇപ്പോൾ ഇവിടെ ഈ ക്യാം ഉണ്ട് അത് റൊട്ടേറ്റ് ചെയ്യാവുന്നതാണ് അത് ഈ ഷാഫ്റ്റിനൊപ്പം തിരിക്കാൻ കഴിയും ഇവിടെ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു ഫോള്ളോവെഴ്സ് നമുക്കുണ്ട് ഈ തരത്തിലുള്ള ക്യാമുകൾ സാധാരണയായി പിസ്റ്റൺ സിലിണ്ടർ എഞ്ചിനുകളിൽ ഉപയോഗിക്കുന്നു അവ സാധാരണയായി വാൽവുകൾ തുറക്കാൻ ഉപയോഗിക്കുന്നു അതിനാൽ ക്യാം മെക്കാനിസത്തിൽ നമ്മൾ മേറ്റ് ലേക്ക് പോകും തുടർന്ന് മെക്കാനിക്കൽ മേറ്റ് കൾ ഈ ക്യാം ഫോളോവർ ഈ ഉപരിതലവും ഫോള്ളോവെർസ് രണ്ട് കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുന്നു അവ രണ്ടും ക്യാം പാതയിലാണ് ആയിരിക്കേണ്ടത് ഈ ഫോള്ളോവെർസ് നെ സംബന്ധിച്ചിടത്തോളം ക്യാം പാതയിലാണ് പോയിന്റ് കിടക്കേണ്ടത് നിങ്ങൾക്ക് കേന്ദ്രം തിരഞ്ഞെടുക്കാം ഓകെ ക്ലിക്കുചെയ്യുക നമ്മൾ ഇത് തിരിക്കുമ്പോൾ ക്യാമിന്റെ ഉപരിതലത്തിൽ ഫോള്ളോവെർസ് ഘടിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ ഈ ക്യാം മേറ്റ് നെ സഹായിക്കുന്നു ഇത് മെക്കാനിക്കൽ മേറ്റ് കളിൽ ലഭ്യമായ ക്യാം മേറ്റ് ആയിരുന്നു അടുത്തത് ഈ സ്ലോട്ടാണ് അതിനായി നമ്മൾ മറ്റ് ചില ജ്യാമിതി ലോഡുചെയ്യും ഇവ ഡിലീറ്റ് ചെയ്യുന്നു ഇവിടെ നമ്മുക്ക് ഒരു പുഞ്ചിരിക്കുന്ന മുഖം പോലത്തെ ഘടകമുണ്ട് ഇതിന്റെ ഒരു പകർപ്പ് തയ്യാറാക്കാം അതിനായി ഈ ഭാഗത്തിന് ഒരു സ്ലോട്ട് ഉണ്ട് രണ്ട് സ്ലോട്ടുകൾ അല്ലെങ്കിൽ ഒരു സ്ലോട്ട് അല്ലെങ്കിൽ ഒരു പിൻ പരസ്പരം വിന്യസിക്കാൻ ഈ സ്ലോട്ട് നമ്മളെ അനുവദിക്കുന്നു ഇത് പരിശോധിക്കാം നിങ്ങൾ മേറ്റ് ലേക്ക് പോകും ഈ മെക്കാനിക്കൽ മേറ്റ് തുടർന്ന് ഒരു സ്ലോട്ട് തിരഞ്ഞെടുക്കും ഈ സ്ലോട്ടിനായി ഈ സ്ലോട്ടും ഈ സ്ലോട്ടും ആയ രണ്ട് തിരഞ്ഞെടുക്കലുകൾ നിങ്ങൾ നടത്തേണ്ടതുണ്ട് ഈ സ്ലോട്ട് ഇപ്പോൾ മറ്റേതിന് മുകളിൽ ഉറപ്പിച്ചു നമുക്ക് ഇനി ഇത് ഫിക്സ് ചെയ്യാം ഇപ്പോൾ നമുക്ക് മറ്റ് സ്ലോട്ടുകൾക്ക് അനുസൃതമായി നീങ്ങുന്നത് കാണാം ഇത് മികച്ചതാക്കാൻ നിങ്ങൾ ഇവ രണ്ടും അറ്റാച്ചുചെയ്യും ഇവിടെ നിങ്ങൾക്ക് ഇവ രണ്ടിന്റെയും സ്ലോട്ടുകൾ പരസ്പരം വിന്യസിച്ചിരിക്കുന്നതായി കാണാം അവ മറ്റൊരു ഉപരിതലത്തിലേക്ക് ഉരുളുന്നു നമുക്ക് ഇതിലേക്ക് ഒരു പിൻ ശരിയാക്കാനും കഴിയും നമുക്ക് വീണ്ടും മേറ്റ് ലേക്ക് പോകാംനിങ്ങൾ സ്ലോട്ട് തിരഞ്ഞെടുക്കും ഈ ഉപരിതലവും ഈ പിൻ ഉം രണ്ട് ഇനങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കും ഇപ്പോൾ ഈ പിൻ ഇതിലേക്ക് ഉറപ്പിച്ചിരിക്കുന്നതായും ഈ പിൻ സ്ലോട്ടിലേക്ക് നീങ്ങുന്നതായും നമുക്ക് കാണാം ഇതാണ് സ്ലോട്ട് സംവിധാനം ഇവിടെ ലഭ്യമായ അടുത്ത മേറ്റ് നമുക്കിവിടെ ഉള്ളത് ഹിൻജ് മെക്കാനിസം ആണ് അത് നമ്മൾ മുൻപേ നോക്കിക്കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഗിയർ മേറ്റ് നെ ക്കുറിച്ച് നോക്കാം ഗിയർ മേറ്റ് കൾക്കായി ചില ഭാഗങ്ങൾ ലോഡ് ചെയ്യട്ടെ ഇവിടെ നമുക്ക് ഈ ഗിയർ ഉം അതിൻ്റെ ഹൌസിങ് ഉം ഉണ്ട് നമുക്ക് ആദ്യം ഈ ഹൌസിങ് സജ്ജീകരിക്കാം ഈ അസംബ്ലി ചെയ്യുമ്പോൾ ഞാൻ അൽപ്പം വേഗത്തിലാക്കും ഇവിടെ നമുക്ക് ഈ ആക്സിൽ കറങ്ങുന്ന ഒരു സ്പർ ഗിയർ ഉണ്ട് അവയിൽ മറ്റൊന്ന് നമുക്ക് ആവശ്യമാണ് അതിനാൽ നമ്മൾ ഇതിന്റെ ഒരു പകർപ്പ് ഉണ്ടാക്കുകയും വീണ്ടും അതേ നടപടിക്രമം നടത്തുകയും ചെയ്യും ഇവിടെ രണ്ട് ഗിയർ സജ്ജീകരണമുണ്ട് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഭ്രമണത്തെ വിന്യസിക്കുക എന്നതാണ് ഇത് മറ്റേതിന്റെ ഭ്രമണത്തെ ബാധിക്കും അതിനായി ഒരു പ്രതലത്തിൽ സജ്ജീകരിക്കേണ്ടതുണ്ട് അതിനാൽ രണ്ടു ഫേസുകളും സെലക്ട് ചെയ്തതിനു ശേഷം മേറ്റ് ൽ ക്ലിക്ക് ചെയ്യുക അതിനു ശേഷം കോയിൻസിഡന്റ് ആയി ക്രമീകരിക്കുക ഒകെ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇവ രണ്ടും ഒരു സ്ഥിരമായ ദൂരമാക്കി മാറ്റുന്നതിന് ഒരൊറ്റ പ്രതലത്തിലാണ് ഇത് സ്ഥിരമായ അകലത്തിൽ ശരിയാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിനായി നമ്മൾ ആക്സിസ് ലേക്ക് പോകും ഈ രണ്ട് ആക്സിലുകളുടെയും അച്ചുതണ്ട് നമുക്ക് മേറ്റ് ചെയ്യിക്കാം ഇപ്പോൾ ഇവിടെ ഇത് യോജിക്കുന്നു അവ പരസ്പരം കോയ്നസിഡന്റ് ആണ് എന്നാൽ അതിനുമുമ്പ് നിങ്ങൾ അവയെ ഉചിതമായ അകലത്തിൽ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് നമ്മൾ അവയെ വളരെ നന്നായി ഈ രീതിയിൽ വിന്യസിക്കും ഇപ്പോൾ വീണ്ടും സെന്റർ ഷാഫ്റ്റുമായി യോജിക്കുന്നു ഇവിടെ നമുക്ക് ഈ ഓഫ്സെറ്റ് ക്ലിക്കുചെയ്യുകയും അത് യാന്ത്രികമായി അതിന്റെ മുമ്പത്തെ സ്ഥാനത്തേക്ക് പുനസ്ഥാപിക്കുകയും അത് ലോക്ക് ചെയ്യുകയും ചെയ്യും ഇപ്പോൾ ഒകെ ക്ലിക്കുചെയ്യുന്നതിലൂടെ നമ്മൾ ആക്സിസ് മറയ്ക്കും ഇവിടെ ഈ ഷാഫ്റ്റ് ശരിയാക്കിയിട്ടില്ലാത്തതിനാൽ ഇത് ചലിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും അതിനാൽ നിങ്ങൾക്ക് അത് ശരിയാക്കേണ്ടതുണ്ട് അത് നന്നായി സ്ഥാപിക്കാൻ അനുവദിക്കുക നമ്മൾ ഷാഫ്റ്റ് ശരിയാക്കും ഇത് നീങ്ങുന്നതും നമുക്ക് കാണാം എന്നിരുന്നാലും ഇപ്പോൾ ഇവയുമായി ഒരു ബന്ധവുമില്ല അതിനാൽ മെക്കാനിക്കൽ മേറ്റ് കളിൽ ലഭ്യമായ ഈ ഗിയർ മേറ്റ് ആണ് ഈ ബന്ധം ഫീച്ചർ ചെയ്യുന്നത് നിങ്ങൾ മെക്കാനിക്കൽ മേറ്റ് ലേക്ക് പോകും കൂടാതെ സെക്ഷൻസ് ഒഴിവാക്കുക ഗിയർ മേറ്റ് ൽ ഈ രണ്ടു ആരങ്ങൾ സെലക്ട് ചെയ്യുന്നു ഈ ഗിയർ മേറ്റ് ഇവ രണ്ടും തമ്മിലുള്ള അനുപാതം യാന്ത്രികമായി കണ്ടെത്തുന്നു ഇത് ഗിയറും പിനിയനും തമ്മിലുള്ള അനുപാതം കണ്ടെത്തി നിങ്ങൾ ഒകെ ക്ലിക്കുചെയ്യുമ്പോൾ അത് ലിങ്കുചെയ്യും നിങ്ങൾ ഈ ഗിയർ ദിശയിലേക്ക് നീങ്ങുമ്പോൾ അത് സ്വയമേവ മറ്റൊന്നിലേക്ക് മാറ്റപ്പെടും അതിനാൽ മറ്റ് കേസുകളും സമാനമാണ് എന്നിരുന്നാലും ഈ സാഹചര്യത്തിൽ എപിസെന്റർ ഗിയറുകളുടെയും മറ്റുള്ളവയുടെയും കാര്യത്തിൽ നമുക്ക് ഈ ദിശ മാറ്റാൻ കഴിയും എന്നിരുന്നാലും നമുക്ക് ഈ ദിശകൾ റിവേഴ്സ് ചെയ്യാൻ കഴിയും അതിനാൽ നമുക്ക് റിവേഴ്സ് എന്ന് വിളിക്കുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയും ഇത് ഇപ്പോൾ പരിശോധിക്കുന്നു ഇവ രണ്ടും ഒരേ ദിശയിലേക്ക് നീങ്ങുന്നു ഇത് ഗിയർ മേറ്റ് ആണ് അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മേറ്റ് കൾ റാക്ക് പിനിയൻ എന്നിവയാണ് അതിനായി നമ്മൾ ഒരു ജ്യാമിതി ഘടകം ലോഡുചെയ്യും നമ്മൾ റാക്കും ഒരു പിനിയനും ലോഡ് ചെയ്യും ഇവിടെ നമുക്ക് ഈ റാക്കും അതിനുമുകളിൽ ഈ പിനിയനുമുണ്ട് ഈ റാക്കും പിനിയനും അനുവദിക്കുന്നു ഈ റാക്ക് പിനിയൻ ഇത് ഉദ്ദേശിക്കുന്നത് ഈ പിനിയന്റെ ചലനം ഈ റാക്കിലൂടെ നടക്കുന്നു ഇവ സാധാരണയായി കൺവെയർ ബെൽറ്റുകളിൽ ഉപയോഗിക്കുന്നു അതിനായി നമുക്ക് ഈ റാക്കും പിനിയനും സജ്ജമാക്കാം നമ്മൾ ഇവ പരസ്പരം വിന്യസിക്കും അതിനാൽ ഈ റാക്ക് പിനിയൻ എന്നിവയ്ക്കായി നമ്മൾ ഈ മെക്കാനിക്കൽ മേറ്റ് ലേക്ക് പോകും ഇപ്പോൾ നമ്മൾ റാക്ക് പിനിയൻ എന്നിവ തിരഞ്ഞെടുക്കും ആദ്യം ഇത് റാക്ക് ദൈർഘ്യം തിരഞ്ഞെടുക്കാൻ ആവശ്യപ്പെടുന്നു ഈ റാക്കിനായി നമ്മൾ ഈ റാക്കിന്റെ അവസാന അറ്റം തിരഞ്ഞെടുക്കും പിനിയന് ഇതിനായി പിച്ച് ഡയമീറ്റർ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത് എന്നിരുന്നാലും ഇപ്പോൾ നമുക്ക് പിച്ച് ഡയമീറ്റർ കാണാൻ സാധിക്കില്ല ഇത് കാണുവാനായി നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് നമ്മൾ പാർട്ട് ഡീറ്റൈൽസിലേക്കു പോവുകയും കൂടാതെ ഈ ടൂത്ത് കട്ട് തിരഞ്ഞെടുക്കുമ്പോൾ അത് കാണിക്കും ഈ പിനിയന്റെ ടൂത്ത് കട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം അതിനാൽ ഇപ്പോൾ നിങ്ങൾ വീണ്ടും ഈ റാക്ക് പിനിയൻ മേറ്റ് ലേക്ക് പോകും ഇപ്പോൾ നമുക്ക് ഈ റാക്ക് ഉം പിച്ച് ഡയമീറ്റർ ഉം വീണ്ടും തിരഞ്ഞെടുക്കാം നമുക്ക് ഒകെ ക്ലിക്കുചെയ്യും എന്നിരുന്നാലും ഇത് മറ്റ് ദിശകളിലേക്കും നീങ്ങാം ഇതിനായി നമുക്ക് ഈ ആക്സിസ് ശരിയാക്കേണ്ടതുണ്ട് ഇത് നമുക്ക് കാണാൻ കഴിയും ഇത് മുകളിലേക്കുള്ള ദിശയിലേക്ക് നീങ്ങാം ഇത് പരിഹരിക്കാൻ നിങ്ങൾ ഈ സ്ഥാനത്തേക്ക് ലോക്ക് ചെയ്യേണ്ടതുണ്ട് അതിനാൽ അതിനായി ഈ ഗിയർ കാര്യത്തിൽ നമ്മൾ ചെയ്തതുപോലെ നമ്മൾ ഇവ രണ്ടും നല്ലരീതിയിൽ അലൈൻ ചെയ്യുക ഇപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആക്സിസ് കാണിക്കാൻ ആവശ്യപ്പെടും ഈ ആക്സിസ് ഉം ഈ മേറ്റ് ന്റെ ബേസും നിങ്ങൾ തിരഞ്ഞെടുക്കും അത് കോയിൻസിഡന്റും ഓഫ്സെറ്റുമായി മാറ്റും ഇപ്പോൾ ഈ പിനിയൻ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഇത് കറങ്ങുന്നത് കാണാം നിങ്ങൾ ഇത് ലോക്ക് ചെയ്യുകയും ഈ റാക്ക് നീക്കുകയും ചെയ്താൽ ഈ ഭ്രമണം നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ നിങ്ങൾ ഈ പിനിയൻ നീക്കുകയാണെങ്കിൽ ഈ ഭ്രമണം നമുക്ക് കാണാം ഗിയർ അസംബ്ലിയിലെന്നപോലെ ഇവിടെ ദിശയും വിപരീതമാക്കാം ഇത് ഒരു റാക്ക് ആൻഡ് പിനിയൻ ചലനമായിരുന്നു അതിനാൽ ഇവിടെ ലഭ്യമായ അടുത്ത മെക്കാനിക്കൽ മേറ്റ് ആണ് സ്ക്രൂ ഈ സ്ക്രൂ നമ്മൾ ഇതിനകം നോക്കിക്കഴിഞ്ഞു ഇപ്പോൾ ഈ യൂണിവേഴ്സൽ ജോയിന്റ് പരിശോധിക്കും എന്നിരുന്നാലും അസംബ്ലികളിൽ ഇത് പതിവായി ഉപയോഗിക്കാറില്ല കാരണം അത് ചെയ്യുന്നതിന് മറ്റനേകം വഴികളുണ്ട് അതിനാൽ എന്നാലും ഒരവിലേക്കായി നമുക്കൊന്ന് പരിശോധിക്കാം നമ്മൾ യൂണിവേഴ്സൽ ജോയിന്റ് പോകും നമ്മൾ ചില ഭാഗങ്ങൾ ഇമ്പോർട് ചെയ്യും സജ്ജീകരണത്തിനായി നമ്മൾ ഇവ കൂട്ടിച്ചേർക്കും ഇവിടെ നമുക്ക് ഈ രണ്ട് കാർബ്സ് ഷാഫ്റ്റ് കപ്ലറുകൾ ഉണ്ട് ഇതിനെ സാധാരണയായി യൂണിവേഴ്സൽ ജോയിന്റ് എന്ന് വിളിക്കുന്നു ഈ പ്രത്യേക ഷാഫ്റ്റിലേക്ക് ഇവ മാറ്റുന്നതിന് ഇതിന്റെ ചലനത്തെ വിന്യസിക്കുക എന്നതാണ് നമുക്ക് വേണ്ടത് അതിനായി നിങ്ങൾ ആദ്യം ഇത് അലൈൻ ചെയ്യുക ഇപ്പോൾ നമ്മൾ മേറ്റ് ലേക്കും മെക്കാനിക്കൽ മേറ്റ് ലേക്കും യൂണിവേഴ്സൽ ജോയിന്റിലേക്കും പോകും നിങ്ങൾ രണ്ട് ബോഡികളും തിരഞ്ഞെടുക്കും ഒകെ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇവയിലൊന്ന് നിങ്ങൾ തിരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും മറ്റേ ഷാഫ്റ്റ് എല്ലാം ഇതിലേക്ക് ചേർത്ത് മനോഹരമായി നീങ്ങുന്നു ഇത് യൂണിവേഴ്സൽ ജോയിന്റ് ആണ് ഇപ്പോൾ മെക്കാനിക്കൽ മേറ്റ് കളിൽ ലഭ്യമായ എല്ലാ മേറ്റ് കളെയും നമ്മൾ പൂർത്തിയാക്കി മുമ്പത്തെ പ്രഭാഷണങ്ങളിൽ ഈ അഡ്വാൻസ്ഡ് ആൻഡ് സ്റ്റാൻഡേർഡ് മേറ്റ് കളെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ മെക്കാനിക്കൽ മേറ്റ് കളെ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം ഈ പോപ്പുലർ മേറ്റ് കളിൽ ചിലരെ ഉൾക്കൊള്ളുന്ന ഒരു സിമ്പിൾ അസംബ്ലിയിൽ വർക്ക് ചെയ്തു നോക്കാം അതിനാൽനമ്മൾ ഒരു എക്സാമ്പിൾ പ്രോബ്ലം ഉൾപ്പെടുത്തുന്നു ഇപ്പോൾ ഒരു എക്സാമ്പിൾ പ്രോബ്ലത്തിൽ അടുത്തിടെ പഠിച്ച ഈ മെക്കാനിക്കൽ മേറ്റ് കളെ നിങ്ങൾ അന്വേഷിക്കും അതിനാൽ നിങ്ങൾ അടുത്തിടെ പഠിച്ച മെക്കാനിക്കൽ മേറ്റ് കളെ ഉൾക്കൊള്ളുന്ന ചില ഭാഗങ്ങൾ നമ്മൾ ലോഡുചെയ്തു ഇത് അസ്സെംബിൾ ചെയ്യാൻ ശ്രമിക്കാം ഇവിടെ നമുക്ക് ഒരു ഷാസ്സി ഉണ്ട് ഈ ഫിറ്റ് എല്ലാ റാക്കുകളും മൌണ്ട് ചെയ്യുന്നു ഇത് ഒരു റാക്കാണ് ഒരു പിനിയൻ ഒരു ബെവൽ ഗിയർ ഷാഫ്റ്റ് ക്യാം ഷാഫ്റ്റ് എന്നിവയാണ് നമുക്ക് ഇത് വേഗത്തിൽ പൂർത്തിയാക്കാം നമ്മൾ ഇവിടെ ഈ റോഡ് ശരിയാക്കും നമ്മൾ ഈ ബെവൽ ഗിയർ സജ്ജീകരിക്കും ഇപ്പോൾ ഇതിന്റെ പ്രതിരൂപം ഇവിടെ നമ്മൾ ഈ അസംബ്ലി പൂർത്തിയാക്കി എന്നിരുന്നാലും ഇവയുടെ മെക്കാനിക്കൽ ചലന ഭാഗം ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല ഓരോ ഭാഗങ്ങളും മനോഹരമായി നീങ്ങുന്നത് നമുക്ക് കാണാം പക്ഷേ അവ തമ്മിൽ ബന്ധിപ്പിച്ചിട്ടില്ല നമുക്ക് ഇത് പരിഹരിക്കേണ്ടതുണ്ട് ഗിയർ അസംബ്ലിയിലെന്ന പോലെ നമ്മൾ അവയെ നന്നായി അലൈൻ ചെയ്യുക ഇത് ഈ ദിശയിൽ നമ്മൾ പരിഹരിക്കുന്നതും കാണുക ഇപ്പോൾ നമ്മൾ ഈ സ്ഥാനം ലോക്ക് ചെയ്യും ഈ ഗിയർ അസംബ്ലിയിൽ ചെയ്തതുപോലെ മേറ്റ് ചെയ്യാൻ ഈ പ്രതലം തിരഞ്ഞെടുക്കുകയും നിങ്ങൾ ഒരു ഓഫ്സെറ്റ് ക്ലിക്ക് ചെയ്ത് ഓകെ ആക്കുകയും ചെയ്യും ഇപ്പോൾ ഇത് ഇതിലേക്ക് ഉറപ്പിച്ചിരിക്കുന്നു സമാനമായി ഇതിൽ നിങ്ങൾക്ക് ഇത് റാക്കിലും ആവശ്യമാണ് നമുക്ക് റാക്കിന്റെ സ്ഥാനവും ഉയരവും ശരിയാക്കാം നമ്മൾ ഈ എഡ്ജ് തിരഞ്ഞെടുത്ത് ഒരു നിശ്ചിത അകലത്തിൽ എഡ്ജുമായി പൊരുത്തപ്പെടുത്തുക നമ്മൾ ഒരു ഓഫ്സെറ്റ് തിരഞ്ഞെടുക്കും അതിനാൽ ഇപ്പോൾ നിങ്ങൾ ഈ മെക്കാനിക്കൽ മേറ്റ് കളെ വിന്യസിക്കും അതിനാൽ നിങ്ങൾ മേറ്റ് യിലേക്ക് പോകും തുടർന്ന് മെക്കാനിക്കൽ മേറ്റ് കൾ നമ്മൾ ഗിയറിലേക്ക് പോകും ആദ്യം ഇവ രണ്ടും തമ്മിൽ ഒരു ബന്ധം സ്ഥാപിക്കും ആദ്യം ഈ ഷാഫ്റ്റിന് ഈ പ്രത്യേക ബെവൽ ഗിയറിലേക്ക് ചലനം കൈമാറ്റം ചെയ്യേണ്ടതുണ്ട് നമ്മൾ ഈ ആന്തരിക ഷാഫ്റ്റിന്റെ അരികും ബാഹ്യ ഷാഫ്റ്റിന്റെ അരികും തിരഞ്ഞെടുക്കും ഒകെ ക്ലിക്കുചെയ്യുക ഇപ്പോൾ ഈ ഷാഫ്റ്റ് തിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഗിയർ കറങ്ങുന്നത് കാണാം ഇപ്പോൾ ഈ രണ്ട് മേറ്റ് കളും വീണ്ടും ഗിയർ മേറ്റ് മായി ഒരു ബന്ധം ഉണ്ടാക്കും ഇപ്പോൾ ഇതും ഗിയർ വ്യാസവും ഈ അരിക് തിരഞ്ഞെടുക്കുക നമ്മൾ ഇത് സൂം ചെയ്യും ഈ അരികും ഈ ബെവൽ ലെയർ അരികും ഇപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള അനുപാതം യാന്ത്രികമായി കണ്ടെത്തുകയും അത് വിന്യസിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ ഈ താഴ്ന്ന ബെവൽ ഗൈഡ് കറങ്ങുന്നത് പോലെ നിങ്ങൾക്ക് കാണാൻ കഴിയും അത് മറ്റൊന്നുമായി അലൈൻ ചെയ്തിരിക്കുന്നു അതിനാൽ ഇപ്പോൾ അതേ രീതിയിൽ ഈ ഷാഫ്റ്റിലൂടെ ഈ ഗിയറിലേക്ക് ഇത് അലൈൻ ചെയ്യേണ്ടതുണ്ട് അത് ഹൌസിങ് വീണ്ടും മേറ്റ് ചെയ്യുന്നു നമ്മൾ ഈ ഗിയറിലേക്ക് പോകും ഇപ്പോൾ ഈ ഷാഫ്റ്റ് കൈമാറ്റം ചെയ്യേണ്ടതുണ്ട് ഗിയറിലേക്ക് പോകുക ഈ ഷാഫ്റ്റും മറ്റേതിന്റെ അരികും തിരഞ്ഞെടുക്കുക ഇത് കറങ്ങുന്നതായി നമുക്ക് കാണാം ഇതും ഷാഫ്റ്റിനൊപ്പം കറങ്ങുന്നു ഇപ്പോൾ വീണ്ടും ഈ പവർ മുകളിലെ ഗിയറിലേക്ക് കൈമാറണം ഇപ്പോൾ അതേ രീതിയിൽ ഈ ഗിയർ മേറ്റ് നായി ഈ പ്രത്യേക എഡ്ജ് തിരഞ്ഞെടുക്കാൻ നമ്മൾ പോകും ഈ എഡ്ജ് ക്ലിക്കുചെയ്ത് അതിന്റെ വ്യാസം അനുപാതം നമുക്ക് കാണാനാകും വ്യാസ അനുപാതം ഇവ രണ്ടിനും തുല്യമാണ് അതിനാൽ നമ്മൾ നീങ്ങുമ്പോൾ ഇത് കറങ്ങുന്നു എന്നിരുന്നാലും റാക്ക് ഇപ്പോഴും ശരിയാക്കേണ്ടതുണ്ട് അതിനാൽ ഈ റാക്കിനായി നമ്മൾ മേറ്റ് ലേക്ക് പോകും നിങ്ങൾ മെക്കാനിക്കൽ മേറ്റ് കളിലേക്ക് പോകും നിങ്ങൾക്കറിയാവുന്നതുപോലെ ഈ റാക്കും പിനിയനും ഈ റാക്ക് എഡ്ജ് നീളം ആവശ്യപ്പെടുന്നു ഈ പിനിയൻ ഇപ്പോൾ നിങ്ങൾ ഇത് ഏകദേശം തിരഞ്ഞെടുക്കും ഇപ്പോൾ ഇത് നീങ്ങുന്നത് നിങ്ങൾക്ക് കാണാം അതിനാൽ ഈ ഷാഫ്റ്റ് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഭാഗങ്ങളെല്ലാം ചലിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും എന്നിരുന്നാലും ക്യാം ഇപ്പോഴും ശരിയാക്കേണ്ടതുണ്ട് അതിനാൽ നിങ്ങൾ വേഗത്തിൽ ഈ ക്യാം മേറ്റ് ലേക്ക് പോകും ഈ ക്യാം പാത തിരഞ്ഞെടുക്കുകയും ഈ ക്യാം ഫോളോവറിനായി ക്യാം ഫോളോവർ തിരഞ്ഞെടുക്കുകയും ചെയ്യും നിങ്ങൾ ഇത് തിരഞ്ഞെടുത്ത് ഒകെ ക്ലിക്കുചെയ്യുക അതിനാൽ ഇപ്പോൾ ഇത് കറങ്ങുന്നുണ്ട് എന്നിരുന്നാലും ഇത് ഇതുവരെ ഈ ഗിയറുമായി ബന്ധിപ്പിച്ചിട്ടില്ല അതിനാൽ നിങ്ങൾക്ക് വീണ്ടും ഒരു ഗിയർ മേറ്റ് ആവശ്യമാണ് ഈ കാം ഡയമീറ്റർ ഈ ഷാഫ്റ്റിലേക്ക് തിരഞ്ഞെടുക്കുക ഇപ്പോൾ ഇത് മറ്റ് ഗിയറുകളുമായി നന്നായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ മെക്കാനിക്കൽ മേറ്റ് കളെ ഉപയോഗിച്ച് ഈ ഷാഫ്റ്റ് എല്ലാ പ്രത്യേക ഭാഗങ്ങളിലേക്കും പവർ കൈമാറുന്നത് ഇപ്പോൾ നമുക്ക് കാണാം എന്നിരുന്നാലും ഈ ഹാൻഡിൽ ഇതുവരെ പരിഹരിച്ചിട്ടില്ല അതിനാൽ ഇതിൽ നിന്ന് ഈ ഷാഫ്റ്റിലേക്ക് നിങ്ങൾ വൈദ്യുതി പകരാത്തതിനാൽ നമുക്ക് ഇതും ചെയ്യാൻ കഴിയും ഒരിക്കൽ കൂടി നിങ്ങൾ ഈ ഗിയർ മേറ്റ് മെക്കാനിക്കൽ മെക്കാനിക്കൽ മേറ്റ് കളിലേക്ക് പോകും തുടർന്ന് ഗിയർ മേറ്റ് നമ്മൾ തിരഞ്ഞെടുക്കും നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആന്തരിക ഭാഗം കാണുന്നതിന് നിങ്ങൾ ഇത് സുതാര്യമാക്കേണ്ടതുണ്ട് ഇപ്പോൾ ഇത് ഗിയറുമായി വിന്യസിച്ചിരിക്കുന്നു നിങ്ങൾ ഈ ഹാൻഡിൽ തിരിക്കുമ്പോൾ ഈ സോളിഡ് വർക്കുകളിൽ ലഭ്യമായ പ്രകടമായ മെക്കാനിക്കൽ മേറ്റ് കൾ ഉപയോഗിച്ച് എല്ലാ ഭാഗങ്ങളും ഉപയോഗിച്ച് ചലിക്കുന്നതായി നിങ്ങൾക്ക് കാണാം ഈ മെക്കാനിക്കൽ മേറ്റ് കളെ നമ്മൾ നന്നായി ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നു ഈ ട്യൂട്ടോറിയലിലൂടെ നിങ്ങൾ ഈ സെഷന്റെ അവസാനത്തിൽ എത്തിയിരിക്കുന്നു ഇത് ഇവിടെ നിറുത്തുന്നു വളരെ നന്ദി ഒപ്പം ഒരു നല്ല ദിവസം നേരുന്നു